ഏതാനും ഘടകങ്ങൾ ചേർന്നാണ് പ്രോപ്പർട്ടി റൈറ്റ് രൂപീകൃതമാകുന്നത് എന്ന് നമ്മൾ കാണുകയായിരുന്നു പ്രതിപാദിക്കപ്പെടുന്ന ഈ പ്രോപ്പർട്ടി ആവർത്തിക്കപ്പെടാവുന്നതും തനി പകർപ്പുകൾ എടുക്കാവുന്നതും ആണെന്നും നമ്മൾ കണ്ടു മറ്റൊരു പോയിൻറ് നമ്മൾ കണ്ടത് റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തിക്ക് റൈറ്റ് ലംഘിക്കുന്നവർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കാം എന്നതാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ സ്വഭാവസവിശേഷതകളും സവിശേഷഗുണങ്ങളും നമ്മൾ വിശദമായി പഠിച്ചു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും നിർവചിക്കുന്നതിനും ആദ്യമേ ഈ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വെളിവാക്കുന്ന പ്രതിപാദ്യവിഷയം എന്തെന്ന് അറിയുക ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നു പറയുന്നത് ഒരു കൂട്ടം അവകാശങ്ങളാണ് അവയാകട്ടെ വെളിവാക്കപ്പെടുന്നത് ആശയങ്ങളുടെ വിവിധ രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകളിൽമേലാണ് ഇത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ ഒരു നിർവചനം തന്നെയാണ് ആശയങ്ങളുടെ ആവിഷ്കാരത്തിൽ അല്ലാതെയും ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വെളിപ്പെടാവുന്നതാണ് ഉദാഹരണത്തിന് ഭൂമിശാസ്ത്രപരമായ സൂചന ആയ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ യഥാർത്ഥത്തിൽ ഒരു ആശയമല്ല ചില പ്രത്യേക വസ്തുക്കൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ആ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ടുതന്നെ അതിന് പ്രത്യേകമായ വ്യാവസായിക മൂല്യം കൈ വരുന്നതുമാണ് ആ പ്രത്യേക ഭൂപ്രദേശത്തിന് ഒരുപക്ഷേ പ്രത്യേകമായ കാലാവസ്ഥയോ അന്തരീക്ഷ സ്ഥിതിയോ ഉണ്ടായിരിക്കാം വസ്തുവിനെ കൂടുതൽ വാണിജ്യ മൂല്യമുള്ളതാക്കുന്നതിന് അത് ഒരു പ്രധാന ഘടകം ആയിരിക്കാം അതുകൊണ്ട് ആ വസ്തു ആ സ്ഥലത്തിൻറെ പേരിൽ അറിയപ്പെടുന്നു ഇവിടെ ഒരു ആശയത്തിന് പ്രാധാന്യം ഇല്ല ആർക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻറെ ഗുണം ലഭിക്കും എന്നു പറയുവാൻ സാധ്യമല്ല ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻറെ കാര്യത്തിൽ ഈ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ ഗുണഭോക്താക്കൾ ആ സ്ഥലത്തെ ജനങ്ങൾ ആണ് അവിടത്തെ ഉൽപ്പാദകരാണ് ഈ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവർ ഉദാഹരണത്തിന് ഡാർജിലിങ് തേയില അവിടെ തേയിലത്തോട്ടങ്ങൾ സ്വന്തമായുള്ളവർക്കും തേയില നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഡാർജിലിങ് തേയില എന്ന ലേബൽ ഉപയോഗിക്കുവാനും ഈ തേയില ഡാർജിലിങ്ങിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടാനും സാധിക്കും ഡാർജിലിങ്ങിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേയിലയ്ക്ക് മറ്റു സ്ഥലങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന തേയിലയെക്കാൾ ചില പ്രത്യേക ഗുണവിശേഷങ്ങൾ ഉള്ളതായി കാണപ്പെടുന്നു അതുകൊണ്ട് ആ പ്രത്യേക ഭൂപ്രദേശത്ത് നിന്നും തേയില ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജിഐ അവകാശപ്പെടാവുന്നതാണ് നമുക്ക് നമ്മുടെ നിർവ്വചനത്തിലേക്ക് തിരിച്ചു വരാം പറഞ്ഞതുപോലെ ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയെ അത് വെളിപ്പെടുന്ന സബ്ജക്ട് മാറ്റർ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതെങ്കിലുമൊരു കണ്ടുപിടിത്തത്തിൽ കൂടെയാണ് ഒരു ആശയം വെളിവാക്കപ്പെടുന്നത് എങ്കിൽ അത് പെയ്റ്റൻറ് വഴി സംരക്ഷിക്കപ്പെടുന്നു ഏതെങ്കിലും ഒരു ആശയം ഒരു സാഹിത്യ കൃതിയിലൂടെയോ കലാസൃഷ്ടിയിലൂടെയോ ചലചിത്ര നിർമ്മാണ കലയിലൂടെയോ ആണ് വെളിപ്പെടുന്നത് എങ്കിൽ അവ കോപ്പി റൈറ്റ് വഴി സംരക്ഷിക്കപ്പെടുന്നു ഒരാശയം സൌന്ദര്യാത്മക രൂപകല്പനയായ ഒരു ഡിസൈൻ ആണെങ്കിൽ കണ്ണുകൾക്ക് സന്തോഷം പകരുക എന്നതിൽ കവിഞ്ഞു അതിന് മറ്റൊരു പ്രവർത്തനാത്മക പ്രാധാന്യമോ അതിനാവശ്യമായ ഘടകങ്ങളോ ഇല്ലെന്നു വരികിൽ ആ സബ്ജെക്ട് മാറ്റർ അതിൻറെ ഡിസൈൻ രജിസ്റ്റർ ചെയ്തു കൊണ്ട് സംരക്ഷിക്കുവാൻ സാധിക്കും ഇത് നന്നായി മനസ്സിലാക്കുന്നതിനായി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം പ്രമുഖ കമ്പനികളായ നൈക്കീയുടേയോ അഡിഡാസിൻറെയോ ഷൂ ഉദാഹരണമായെടുക്കാം ഈ കമ്പനികളുടെ ഷൂ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ ചില പ്രത്യേക ഘടകങ്ങൾ അതിൻറെ പ്രവർത്തനക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു വായു മുറിച്ചു കടക്കാനുള്ള എളുപ്പം അതുമൂലം ലഭിക്കുന്ന ഗ്രിപ്പ് അഥവാ പിടിത്തം ഇവയെല്ലാം പാദങ്ങൾക്ക് അല്ലെങ്കിൽ പാദങ്ങളുടെ ചില ഭാഗങ്ങൾക്ക് നൽകുന്ന അധികമായ സംരക്ഷണം ഇവയെല്ലാം ഡിസൈൻ ചെയ്യുന്നതിനുള്ള പ്രത്യേകമായ ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന അധിക ഗുണങ്ങളാണ് അവ ഷൂവിൻറെ പ്രവർത്തനക്ഷമതയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് അത്തരം ഡിസൈനുകൾ രജിസ്റ്റർ ചെയ്ത ഡിസൈനുകളുടെ സബ്ജക്ട് മാറ്റർ ആയി നമ്മൾ പറയാറില്ല സൌന്ദര്യാത്മക ഘടകത്തിനു പുറമേ ഇവിടെ ഒരു പ്രവർത്തനാത്മക ഘടകം കൂടി ഉള്ളതിനാൽ അതിൻറെ ഉടമസ്ഥൻ ഒരു രജിസ്ട്രേഡ് ഡിസൈനു വേണ്ടി പോവുകയില്ല അതേസമയം ഷൂവിൻറെ ഡിസൈൻ ഒരു മുയൽ കുഞ്ഞിൻറെയോ ഒരു എലിക്കുട്ടിയുടെയോ ആണെങ്കിൽ സാധാരണ കുട്ടികൾ അത്തരം ഷൂസ് വളരെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ അതുകൊണ്ടുതന്നെ കുട്ടികൾക്കുള്ള ഷൂ പലപ്പോഴും എലിക്കുഞ്ഞിൻറെയോ മറ്റു ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയോ മാതൃകയിലുള്ളതായിരിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഡിസൈന് പ്രവർത്തനാത്മക ഘടകമുണ്ട് എന്ന് നമ്മൾ പറയുകയില്ല അതുകൊണ്ട് ഒരു രജിസ്ട്രേഡ് ഡിസൈൻറെ സാധ്യത അല്ലെങ്കിൽ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അതിൻറെ സൌന്ദര്യാത്മക ഭാവത്തെ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് കണ്ണുകൾക്ക് എത്രമാത്രം ആനന്ദദായകമാണ് എന്ന വശം മാത്രം അതുകൊണ്ട് ഒരു ഡിസൈൻന് പ്രവർത്തനക്ഷമമായ ഘടകങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അതിൻറെ ഉടമസ്ഥൻ സാധാരണയായി രജിസ്ട്രേഡ് ഡിസൈൻനു വേണ്ടി പോകാറില്ല അവക്ക് ഒന്നിൽ കൂടുതൽ റൈറ്റുകൾ ഉണ്ട് ആദ്യമേ തന്നെ അത് ഒരു ട്രേഡ് മാർക്കാണ് അതുകൂടാതെ അവയ്ക്ക് കോപ്പിറൈറ്റ് അവകാശപ്പെടാം കാരണം എല്ലാ ഡിസ്നി കഥാപാത്രങ്ങളും ചില അവസരങ്ങളിൽ കോപ്പിറൈറ്റിന് അവകാശമുള്ള സബ്ജക്ട് മാറ്ററുകൾ ആണ് അതുകൊണ്ട് അത്തരം കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ മറ്റൊരു രൂപത്തിലും നിർമ്മിക്കുവാൻ സാധ്യമല്ല അങ്ങനെ ചെയ്യുന്ന പക്ഷം കോപ്പിറൈറ്റ് ലംഘിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു കോപ്പിറൈറ്റ് കാലയളവ് എന്ന് പറയുന്നത് അതിൻറെ നിർമ്മാതാവിൻറെ ജീവിതകാലവും മരണശേഷം 60 വർഷവുമാണ് അതുകൊണ്ട് ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി നിർവചിക്കുന്നതിന് മുൻപ് അതിൻറെ സബ്ജെക്ട് മാറ്റർ എന്തെന്ന് പരിഗണിക്കണം എന്നത് ഗണനീയമായ ഒരു അവകാശമാണ് അതിനുശേഷം അത് സംരക്ഷിക്കപ്പെടുന്ന ഫോം എന്തെന്ന് നമ്മൾ പരിശോധിക്കുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നത് ഇൻടാഞ്ചിബിൾ അതായത് അദൃശ്യമായവയാണെന്നും പലപ്പോഴും ഈ റൈറ്റിൻറെ അതിരുകൾ നിർണയിക്കുക എളുപ്പമല്ല എന്നും രജിസ്ട്രേഷനിലൂടെ അവകാശി എന്തൊക്കെയാണ് അവകാശപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രജിസ്റ്റർ ചെയ്യുന്നത് ഒരുപക്ഷേ പോറ്റന്റ് അനുവദിക്കുന്ന പേറ്റന്റ് സ്പെസിഫിക്കേഷൻ ആയിരിക്കാം കോപ്പിറൈറ്റ് നിലവിൽ വരാൻ രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും സാഹിത്യസൃഷ്ടികളും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്യുന്നതുപോലെ ഒരു സോഫ്റ്റ്വെയർ കോഡ് രജിസ്റ്റർ ചെയ്ത് ലഭിക്കുകയാണ് ഇവിടെ അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ അവകാശങ്ങളെ ആധികാരികമായി അംഗീകരിച്ചു ലഭിക്കുന്ന ഒരു നടപടിക്രമം ആണ് ജനങ്ങൾക്ക് പരിശോധിക്കുന്നതിനു സാധിക്കുന്നതാണ് ഇതിന് 1999 ലെ ട്രേഡ് മാർക്ക്സ് ആക്ടിൻറെ പിൻബലം ഉള്ളതാണ് ഈ ആക്ട് പ്രകാരം ട്രേഡ് മാർക്കിൻറെ അവകാശിക്ക് അവകാശത്തെ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും 1970 ലെ പേറ്റന്റ് ആക്ട് പ്രകാരം പേറ്റന്റിൻറെ അവകാശിക്ക് തനിക്ക് ലഭിച്ചിരിക്കുന്ന അവകാശത്തെ മറ്റുള്ളവർക്കു മേൽ ഉപയോഗിക്കുവാൻ സാധിക്കും രജിസ്ട്രേഷൻ നിർവഹിക്കുന്നത് ഗവൺമെൻറുകളാണ് രജിസ്ട്രേഷൻ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്നു സബ്ജക്ട് മാറ്ററുകൾ വ്യത്യസ്തമായിരിക്കാം ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ റൈറ്റുകൾ ഉണ്ടാകുന്നു രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും വ്യത്യസ്തമായിരിക്കും കാരണം നമ്മളൊരു ഡിസൈൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസൈനോ ട്രേഡ് മാർക്കോ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ ഏതാനും പേപ്പറുകളാണ് ഫയൽ ചെയ്യുന്നത് പേപ്പറുകളിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും രജിസ്ട്രേഷൻ ഓഫീസ് അതെല്ലാം പരിശോധിച്ച് അപാകതകൾ എല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവകാശം സ്ഥാപിച്ചു കിട്ടുകയായി രജിസ്ട്രേഷൻ ഓഫീസ് സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്തെന്നാൽ നിങ്ങൾ സമർപ്പിച്ച വസ്തുതകൾക്ക് സമാനമായ വസ്തുതകൾ മുൻപ് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അവർ പ്രശ്നം ഉന്നയിക്കുകയും അല്ലാത്തപക്ഷം നിങ്ങളാണ് ആദ്യമായി അത് കണ്ടുപിടിച്ചത് എന്ന് സ്ഥാപിച്ചു തരികയും നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു തരികയും ചെയ്യുന്നു ഇതൊരു നേരായ രീതിയിലുള്ള നടപടിക്രമം ആണ് ഡിസൈൻറെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ സമർപ്പിച്ച ഡിസൈൻ തനിമ ഉള്ളതും അസ്സൽ ആയതും ആണെന്ന് കാണുകയാണെങ്കിൽ ആ ഡിസൈൻ ഉണ്ടാക്കിയ ആദ്യത്തെ വ്യക്തി നിങ്ങളാണ് എന്ന് സ്ഥാപിച്ചു അത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരുന്നു എന്നാൽ പേറ്റന്റുകൾ മറ്റൊരു രീതിയാണ് പിന്തുടരുന്നത് പേറ്റന്റ് സ്പെസിഫിക്കേഷൻനിൽ നിങ്ങളുടെ കണ്ടുപിടുത്തത്തെ വളരെ വിശദമായി വിവരിക്കേണ്ടിയിരിക്കുന്നു കണ്ടുപിടുത്തം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല അതിൻറെ പ്രത്യേകമായ സവിശേഷതകൾ കണ്ടുപിടിത്തത്തിൻറെ മേന്മകൾ ഇതിനു വ്യതിരിക്തവും തത്തുല്യവും ആയി ഇതിനുമുൻപ് നടന്നിട്ടുള്ള മറ്റു കണ്ടുപിടുത്തങ്ങൾ ഇവയെല്ലാംതന്നെ അതിൽ വിവരിച്ച് പറയുക ആവശ്യമാണ് അതുകൊണ്ട് പേറ്റൻന്റ് സ്പെസിഫിക്കേഷൻ ഒരു വിവരണമാണ് അതിൽ പേറ്റന്റ് ഹോൾഡർ തൻറെ കണ്ടുപിടിത്തത്തിൻറെ പശ്ചാത്തലം വിവരിക്കുന്നു എന്തൊക്കെ സാങ്കേതികവിദ്യകൾ ആണ് അദ്ദേഹത്തിന് ലഭ്യമായത് ലഭ്യമായ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് ഇപ്പോൾ വിവരിക്കുന്ന കണ്ടുപിടിത്തത്തിലൂടെ സാധ്യമായ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നതും വിവരിച്ച് പറയണം കണ്ടുപിടിത്തത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിൻറെ പരിശ്രമങ്ങളെ എങ്ങനെ ഈ കണ്ടുപിടിത്തത്തിലേക്ക് എത്തി എന്നുള്ള സൂക്ഷ്മ വിവരങ്ങൾ എല്ലാം അദ്ദേഹം വിവരിക്കുന്നു അതുകൊണ്ട് കണ്ടുപിടിത്തത്തിലേക്ക് നയിച്ച പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങുന്ന വിവരണം ഈ കണ്ടുപിടുത്തം കൊണ്ട് ഉണ്ടായ ഫലങ്ങൾ ഈ കണ്ടുപിടിത്തത്തിലൂടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ കൂടാതെ മറ്റ് പ്രാധാന്യമർഹിക്കുന്ന വിവരങ്ങൾ എല്ലാം വിവരണത്തിൽ ഉൾപ്പെടുത്തുന്നു എങ്ങനെയാണ് ഈ കണ്ടുപിടിത്തം പ്രവർത്തിപ്പിക്കേണ്ടത് കണ്ടുപിടിത്തത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകിച്ചും അതൊരു സാങ്കേതിക യന്ത്രം ആണെങ്കിൽ ഇവയെല്ലാം സൂക്ഷ്മമായി വിവരിച്ചതിനുശേഷം ഏറ്റവും അവസാനം ക്ലെയിംസ് കൂടെ പറഞ്ഞു കൊണ്ടാണ് പേറ്റൻറ് സ്പെസിഫിക്കേഷൻ അവസാനിക്കുന്നത് പേറ്റന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്ന ഈ വിവരണം പേറ്റന്റ് ഓഫീസ് വെറുതെയങ്ങ് രജിസ്റ്റർ ചെയ്യുകയല്ല അവർ ഈ വിവരങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയും ശേഷം റൈറ്റ് ഹോൾഡർക്ക് ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു പരിശോധനയിൽ എന്തെങ്കിലും ആക്ഷേപം കണ്ടെത്തുകയാണെങ്കിൽ ആക്ഷേപത്തിന് ന്യായീകരണം നൽകുവാൻ ഉള്ള അവസരമാണ് ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് നൽകുന്നത് ആക്ഷേപങ്ങൾ അഥവാ തടസ്സവാദങ്ങൾ ഒരുപക്ഷേ സാങ്കേതികം ആയിരിക്കാം അല്ലെങ്കിൽ അത് കാതലായതായിരിക്കാം സമർപ്പിച്ചിരിക്കുന്ന പേറ്റന്റ് ഇന്ത്യൻ നിയമപ്രകാരം പേറ്റന്റബിളല്ലെങ്കിൽ അവിടെ തടസ്സം ഉണ്ടാകും സമർപ്പിച്ചിരിക്കുന്ന പേറ്റന്റ് ഇതിനോടകം നിലവിലുള്ളതാണെങ്കിലും പേറ്റന്റ് ഓഫീസ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ഈ തടസ്സവാദങ്ങൾ എല്ലാം ഗണ്യമായ തടസ്സവാദങ്ങൾ ആയിരിക്കുകയും ചെയ്യും തടസ്സവാദങ്ങൾ അതിജീവിച്ച് മുന്നോട്ടു പോകുക എന്നത് വളരെയധികം സമയം ദൈർഘ്യം ആവശ്യമുള്ള ഒരു നടപടിക്രമം ആണ് ഇങ്ങനെ പേറ്റന്റ് അപേക്ഷയിൽ പേറ്റന്റ് ഓഫീസ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതിന് നമ്മൾ പേറ്റന്റ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നു പേറ്റന്റ് പ്രോസിക്യൂഷൻ വളരെ വിശദമായതും പലപ്പോഴും കുഴഞ്ഞുമറിഞ്ഞതുമായ നടപടിക്രമം ആണ് പേറ്റന്റ് പ്രോസിക്യൂഷൻ ട്രേഡ് മാർക്ക് പ്രോസിക്യൂഷനിൽ നിന്നും ഡിസൈൻ പ്രോസിക്യൂഷനിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് വെച്ചാൽ ഇവിടെ വളരെ അധികം വിശദാംശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം റൈറ്റ് അനുവദിച്ചു കൊടുക്കുന്നതിനു മുൻപ് വ്യക്തി അവകാശപ്പെടുന്ന കാര്യങ്ങളിൽ മേൽ ആഴത്തിലുള്ള ഒരു വിശകലനം ആവശ്യമാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നിർവചിക്കുന്നതിൽ രജിസ്ട്രേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിവിധതരത്തിലുള്ള ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയിൽ സബ്ജക്റ്റ് മാറ്റർ വ്യത്യാസപ്പെട്ടിരിക്കുന്നതനുസരിച്ച് രജിസ്ട്രേഷൻ തന്നെ വിവിധ തരത്തിലുള്ളതാണ് അതുകൊണ്ടുതന്നെ വിവിധങ്ങളായ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളുടെ രജിസ്ട്രേഷൻ നടപടികൾ വ്യത്യസ്തങ്ങളാണ് പേറ്റന്റായാലും ട്രേഡ് മാർക്കായാലും കോപ്പി റൈറ്റായാലും ഈ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളെല്ലാം ഒരു കൂട്ടം അവകാശങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് അതെ ഒരുകൂട്ടം അവകാശങ്ങൾ തന്നെയാണ് ഇവ അവകാശികൾക്ക് പ്രദാനം ചെയ്യുന്നത് ഈ അവകാശങ്ങളുടെ കൂട്ടം സാഹിത്യകൃതികളുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ് സാഹിത്യകൃതികളുടെ കാര്യത്തിലുള്ള അവകാശം എന്നാൽ അത് അച്ചടിക്കാനുള്ള അവകാശമാകാം പ്രസാധനം ചെയ്യാനുള്ള അവകാശമാകാം സിനിമയാക്കാനോ സബ്ജക്ട് മാറ്റർ റെക്കോർഡ് ചെയ്യാനോ ഉള്ള അവകാശം ആകാം കാരണം ഇവിടെ ഒരു ആശയത്തിൻറെ ആവിഷ്കാരം ഉണ്ട് ആവിഷ്കരിക്കാനുള്ള മാധ്യമങ്ങളും പിടിച്ചു വെക്കാനുള്ള അഥവാ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള മാധ്യമങ്ങളും വിവിധങ്ങളാണ് കോപ്പിറൈറ്റ് എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കുക വളരെ ആവശ്യമാണ് കോപ്പിറൈറ്റ് എന്നുപറഞ്ഞാൽ കോപ്പികൾപകർപ്പുകൾ ഉണ്ടാക്കാനുള്ള അവകാശമാണ് പകർപ്പുകൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതു മാധ്യമത്തിൽ അത് ഉണ്ടാക്കുന്നു എന്നതും പ്രധാനമാണ് കോപ്പിറൈറ്റ് വരുന്നതിനു മുൻപ് അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമുൻപ് ലോകം അറിവുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിരുന്നത് സാധാരണയായി ഓറൽ ഫോർമുലൈക് ട്രഡിഷൻ വഴി അതായത് വാചികമായിട്ടായിരുന്നു നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ സ്കൂളിൽ പഠിച്ച നഴ്സറി പാട്ടുകൾ ഇന്ന് നിങ്ങളുടെ കുട്ടികൾ നേഴ്സറി ക്ലാസുകളിൽ പഠിക്കുന്നുവെങ്കിൽ അത് ആ പാട്ടുകൾ ഓറൽ ഫോർമുലൈക് ട്രഡിഷൻ വഴി ആയത് വാചികമായി തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ടതുകൊണ്ടാണ് വർഷങ്ങളായി ആ പാട്ടുകൾ എല്ലാ തലമുറകളും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻനുമുൻപുള്ള കാര്യമാണ് ഇക്കാര്യം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കാലഘട്ടങ്ങളിലും ചില രാജാക്കന്മാർ ഇത്തരം അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടിയാണ് ഈ അവകാശങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രാധാന്യം സിദ്ധിച്ചത് ഇങ്ങനെയെല്ലാം ഉണ്ടാകാൻ ഇടയായിട്ടുള്ള കാരണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഉടനെ പ്രവേശിക്കും ചുരുക്കത്തിൽ കോപ്പിറൈറ്റ് എന്ന പേരിൽ ഒരു അവകാശം നിലവിൽ വരുന്നതിനു മുൻപ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അറിയപ്പെടുന്ന ഒരു അവകാശമായി തീരുന്നതിനു മുൻപ് ഒരു ഓറൽ ഫോർമുലൈക് ട്രഡിഷൻ നിലവിലുണ്ടായിരുന്നു ഓറൽ ഫോർമുലൈക് ട്രഡിഷൻ എന്നുപറഞ്ഞാൽ അത് ആളുകൾ കാര്യങ്ങൾ ഓർത്തു വെയ്ക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ അത് സാങ്കേതികമികവോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോപ്പിറൈറ്റ് ലംഘിക്കുകയാണ് കാരണം ഇപ്പോൾ നിങ്ങളുടെ മാധ്യമം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും അടുത്ത തലമുറയിലെ ആളുകൾ അതിനടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുകയാണ് ഓറൽ ഫോർമുലൈക് ട്രഡിഷനിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ആയ ഒരു പദാർത്ഥം ഒരു മാധ്യമത്തിലൂടെ പിടിച്ചെടുക്കപ്പെടാതെ അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെടാതെ ആയിരിക്കുന്നിടത്തോളം കോപ്പിറൈറ്റ് നിയമത്തിൻറെ കീഴിൽ വരുന്നില്ല പേപ്പറിൽ അച്ചടിക്കുക സിനിമയാണെങ്കിൽ ടേപ്പിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ഡിജിറ്റൽ ആക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും പകർപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു മാധ്യമം ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് ആരെങ്കിലും നിങ്ങൾക്കൊരു പാട്ടു പാടി തരുകയും നിങ്ങൾ വേറൊരിടത്ത് അതോർത്ത് പാടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയുകയില്ല നിങ്ങൾ അതിൻറെ ഒരു പകർപ്പ് ഉണ്ടാക്കിയെന്ന് അത് പറയാൻ നമുക്ക് വേറെ ചില പദങ്ങൾ ഉണ്ട് നമ്മൾ അതിനെ ഇങ്ങനെ പറയും ഞാൻ കേട്ടു പഠിച്ച ഒരു പാട്ട് ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇതിന് പിന്നിൽ ഒരു ചരിത്രം ഉണ്ട് കോപ്പിറൈറ്റ് ഒരു അവകാശമായി രൂപപ്പെട്ടു വരുന്നതിനു മുൻപ് തന്നെ യൂറോപ്പിൽ വളരെ പ്രത്യേകമായ രീതിയിൽ ഓറൽ ഫോർമുലൈക് ട്രഡിഷൻ നിലനിന്നിരുന്നു പല പഠനങ്ങളും വെളിപ്പെടുത്തുന്നത് ഈ ട്രഡീഷൻറെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരാളാണ് ഷേക്സ്പിയർ എന്നതാണ് അദ്ദേഹത്തിന് ഓറൽ ഫോർമുലൈക് ട്രഡിഷനിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ പൈതൃകമായി കിട്ടി എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അദ്ദേഹം എഴുതിയ പല കാര്യങ്ങളും നേരത്തെ തന്നെ ഓറൽ ഫോർമുലൈക് ട്രഡിഷനിൽ നിലവിൽ ഉണ്ടായിരുന്നവയാണ് അപ്പോൾ ചരിത്രം പറയുന്നത് ഈ റൈറ്റ് ഒരു അവകാശമായി അംഗീകരിക്കപ്പെടാനും ലോകമെമ്പാടും പ്രചരിക്കാനും തുടങ്ങിയതിനു പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണെന്നാണ് കാരണം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന പേരിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടികുടിയാണ് നമ്മൾ പറഞ്ഞു കോപ്പിറൈറ്റ് അവകാശം പകർപ്പെടുക്കാനുള്ള അവകാശമാണെന്ന് ആദ്യ പ്രതിയുടെ അനേകം പകർപ്പുകൾ ഉണ്ടാക്കുവാൻ ഉള്ള അവകാശം ഇത് നമുക്ക് നൽകുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യഥാർത്ഥത്തിൽ നിർമ്മാണം യന്ത്രവൽക്കരിച്ചു ഉൽപ്പന്നങ്ങളുടെ അനേകം പകർപ്പുകൾ ഉണ്ടാക്കുക എന്നത് തുലോം എളുപ്പമായി തീർന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉൽപന്നങ്ങളെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ആക്കി കാരണം അവ വലിയ നമ്പറുകളിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് കമ്പോളങ്ങൾ ആരംഭിക്കുന്നതും ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി തന്നെയാണ് അതിനുമുൻപ് ഇതുപോലുള്ള വലിയ രീതിയിലുള്ള മാർക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ നടത്തിയ ചർച്ചകളുമായി ബന്ധമുള്ളതാണിക്കാര്യവും നമ്മൾ പറഞ്ഞു ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വാല്യുബിൾ റൈറ്റ്സ് ആണെന്ന് അവക്ക് വാണിജ്യ മൂല്യം ഉണ്ട് എന്ന് അത് മറ്റുള്ളവരുമായി പങ്കു വെക്കാവുന്നതോ പ്രകടിപ്പിക്കാവുന്നതോ പ്രയോഗത്തിൽ വരുത്താവുന്നതോ ആയ ഒരു ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻറെ ഉത്ഭവത്തെ നോക്കി കാണുകയാണെങ്കിൽ അതിൻറെ വളർച്ചയ്ക്ക് സഹായിച്ച ചില പ്രത്യേക ഘടകങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിലൊന്നാണ് അച്ചടിയുടെ സങ്കേതിക വിദ്യയിൽ ഉണ്ടായ മുന്നേറ്റം അത് ആശയങ്ങൾ വേഗത്തിൽ പ്രചരിക്കപ്പെടുന്നതിന് കാരണമായി കാരണം അച്ചടിവിദ്യ വളരെയധികം വികസിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അനേകായിരം കോപ്പികൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിക്കുന്നു സ്റ്റീലിൻറെ കണ്ടുപിടിത്തം കപ്പലുകളുടെ നിർമ്മാണം ഇവയെല്ലാം കടൽമാർഗം ചരക്കു നീക്കത്തിന് സഹായകമായി ആളുകൾ അവരവരുടെ രാജ്യത്തിൻറെ അതിർത്തികൾ കടന്ന് പുറത്തേക്കു പോകുവാനും പരസ്പരം കാണുവാനും ആശയങ്ങൾ കൈമാറുവാനും തുടങ്ങി യൂറോപ്പിൽ സാഹിത്യകൃതികളുടെ മൊഴിമാറ്റം ഒരു ആവശ്യം ആയി അനുഭവപ്പെട്ടു ഒരു ജർമ്മൻ തത്വശാസ്ത്രകാരൻ അദ്ദേഹത്തിൻറെ ഒരു കൃതിയുമായി വന്നാലോ അല്ലെങ്കിൽ ഒരു ജർമൻ കലാകാരൻ അദ്ദേഹത്തിൻറെ ഒരു കലാസൃഷ്ടിയമായി വന്നാലോ ഉടനെതന്നെ ആ ആശയം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യുക ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായി അനുഭവപ്പെടാൻ തുടങ്ങി ആളുകൾ തങ്ങളുടെ രാജ്യം വിട്ടു മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയതോടെ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഭാഷകളുടെ മൊഴിമാറ്റത്തിൻറെയും വ്യാഖ്യാനത്തിൻറെയും വിശാലമായ മേഖല ഉണരുന്നു അതുവഴി തന്നെ ആശയങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ വളർച്ചയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുള്ള പങ്കിനെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ള കാരണം ഇവിടെയാണ് ഇത് ആശയങ്ങളുമായും ആശയങ്ങളുടെ കൈമാറ്റവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു